നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കൺസേർവെറ്റിസം എന്ന ആശയത്തെ കുറിച്ചു സംസാരിക്കുക ആയിരുന്നു കൺസേർവെറ്റിസം എന്താണെന്ന് വളരെ ചുരുക്കമായി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കൺസേർവെറ്റിസം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് സാധ്യതയുള്ള ഏതു നഷ്ടവും നമ്മൾ കരുതേണ്ടതുണ്ട് അതായത് അത് ഒരു സാധ്യത മാത്രമാണെങ്കിലും നമ്മൾ അതിനു കരുതേണ്ടതുണ്ട് പക്ഷേ സാധ്യമായ ഒരു ഗെയിം ഉണ്ടെങ്കിലും അത് ഉറപ്പില്ലെങ്കിൽ ഞങ്ങൾ അത് കണക്കാക്കില്ല അതിനാൽ അക്കൌണ്ടന്റുമാർ വളരെ വിവേകപൂർണ്ണമായ പാതയോ യാഥാസ്ഥിതിക പാതയോ പിന്തുടരുകയും രണ്ട് മൂല്യങ്ങൾ ലഭ്യമാകുമ്പോൾ സാധാരണയായി കുറഞ്ഞ മൂല്യം നൽകുകയും ചെയ്യുന്നു ഇതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് കൺസേർവെറ്റിസം എന്ന ആശയം പ്രയോഗിച്ചതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വിലമതിക്കുമ്പോൾ ചെലവ് അല്ലെങ്കിൽ മാർക്കറ്റ് മൂല്യം ഏതാണോ കുറവ് അത് വിലമതിക്കണം രണ്ടാമത്തേത് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും നൽകേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങളുടെ വാർഷിക റിപ്പോർട്ട് വായിച്ചിരിക്കും സാമ്പത്തിക പ്രസ്താവനകൾ നോക്കൂ സാമ്പത്തിക പ്രസ്താവനയ്ക്ക് ശേഷം നോട്ട് നമ്പർ 1 കമ്പനി പ്രധാനപ്പെട്ട അക്കൌണ്ടിംഗ് പോളിസികൾ നല്കിയിരിക്കും ആ അക്കൌണ്ടിംഗ് നയങ്ങളിലൂടെ കടന്നുപോകുക അത്തരം അക്കൌണ്ടിംഗ് നയങ്ങളിൽ പലതും കൺസേർവെറ്റിസം അടിസ്ഥാനമാക്കിയുള്ളതാണ് അവ തിരിച്ചറിയാൻ ശ്രമിക്കുക സ്റ്റോക്കിന്റെ മൂല്യനിർണ്ണയത്തിനും ഡിപ്രീസിയേഷനും രണ്ട് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താം ഇന്നത്തെ സെഷനുമായി നമുക്ക് മുന്നോട്ട് പോകാം കഴിഞ്ഞ സെഷനിൽ മൂല്യത്തകർച്ചയെക്കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിച്ചു ആദ്യമായി മൂല്യത്തകർച്ചയെ നിങ്ങൾ എങ്ങനെ നിർവചിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് മൂല്യങ്ങളുടെ തകർച്ച ആണ് ഇത് സ്ഥിര ആസ്തികളുടെ മൂല്യത്തിൽ തുടർച്ചയായതും ക്രമാനുഗതവുമായ നഷ്ടമാണ് ഇൻവെന്ററി അല്ലെങ്കിൽ നിക്ഷേപം പോലുള്ള മറ്റ് ആസ്തികളുടെ കാര്യത്തിൽ മൂല്യങ്ങൾ മുകളിലേക്കും താഴേക്കും പോകാം എന്നാൽ ഫിക്സഡ് അസറ്റിന് വാങ്ങിയ തീയതി മുതൽ അത് നീക്കം ചെയ്ത തീയതി വരെ അസറ്റിന്റെ മൂല്യം തുടർച്ചയായി കുറയുന്നു ആ വീഴ്ചയാണ് മൂല്യത്തകർച്ച എന്നറിയപ്പെടുന്നത് അതിനാൽ പ്രധാനമായും നാല് കാരണങ്ങളാൽ ആസ്തിയുടെ മൂല്യത്തിൽ ക്രമാനുഗതവും നിരന്തരവുമായ ഇടിവാണ് ഇത് ഈ നാല് കാരണങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളിൽ ഭൂരിഭാഗവും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ടൈം ലാപ്സ് എസ്റ്റിമേറ്റും മൂല്യത്തിന്റെ സ്ക്രാപ്പ് എസ്റ്റിമേറ്റും ഈ മൂന്നിനെയും അടിസ്ഥാനമാക്കി റ്റാൻജിബിളും ഇൻറ്റാൻജിബിളും ആയ ഓരോ അസറ്റിനും വാർഷിക ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇപ്പോൾ അവ കണക്കാക്കാൻ നിരവധി രീതികളുണ്ട് എന്നാൽ നാല് രീതികൾ ഇതിൽ ചർച്ചചെയ്യാൻ പോകുന്നു ആദ്യ രണ്ട് വളരെ പ്രധാനമാണ് സ്ട്രെയ്റ്റ് ലൈൻ ആൻഡ് റെഡ്യൂസിങ് ബാലൻസ് കഴിഞ്ഞ തവണ നമ്മൾ സ്ട്രെയ്റ്റ് ലൈൻ ചർച്ച ചെയ്തിരുന്നു സ്ട്രെയ്റ്റ് ലൈൻ രീതി എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം തരാം ഒരു ലക്ഷം യന്ത്രങ്ങൾ നമ്മൾ വാങ്ങിയെന്ന് കരുതുക ഇത് ഉപയോഗപ്രദമായ ലൈഫ് 4 വർഷമാണ് സ്ക്രാപ്പ് മൂല്യം 10000 എന്ന് പറയട്ടെ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എന്തായിരിക്കും 1 ലക്ഷം മൈനസ് 10000 അതായത് 4 വർഷ കാലയളവിൽ 90000 വിതരണം ചെയ്യും അതിനാൽ നമ്മൾ 90 നെ 4 കൊണ്ട് ഹരിക്കും അതിനാൽ 4 ന് 90000 എന്നത് പ്രതിവർഷം ഒരു മൂല്യത്തകർച്ചയാണ് അതിനാൽ ഇത് 22500 ആയിരിക്കും ഇതിനെ സ്ട്രെയ്റ്റ് ലൈൻ രീതി എന്ന് വിളിക്കുന്നു ഫോർമുല കാണാം കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ യൂസ്ഫുൾ ലൈഫ് ഇപ്പോൾ ഇത് കാരണം സംഭവിക്കുന്നത് ഡിപ്രീസിയേഷൻ യൂസ്ഫുൾ ലൈഫിൽ ഉടനീളം കോൺസ്റ്റന്റ് ആയി തുടരുന്നു രണ്ടാമത്തെ രീതി റെഡ്യൂസിങ്ങ് ബാലൻസ് രീതി എന്ന് അറിയപ്പെടുന്നു ഇവിടെ സംഭവിക്കുന്നത് നിശ്ചയിച്ചിട്ടുള്ള വാർഷിക ഡിപ്രീസിയേഷൻ പകരം നമ്മൾ ഒരു ഡിപ്രീസിയേഷൻ റേറ്റ് കണക്കാക്കുന്നു അതിനാൽ അതേ യന്ത്രം കരുതുക തുടക്കത്തിൽ ഒരു ലക്ഷം മൂല്യമുണ്ടെന്ന് നമുക്ക് പറയാം ഡിപ്രീസിയേഷൻ റേറ്റ് 25 ശതമാനമായി കണക്കാക്കുന്നുവെന്ന് കരുതുക തുടർന്ന് വർഷം 1 ൽ ഇത് ഒരു ലക്ഷത്തിൻറ്റെ 25 ശതമാനം 25000 ആയിരിക്കും രണ്ടാം വർഷം നമ്മൾ ഒരു ലക്ഷം എടുക്കില്ല പകരം ആദ്യത്തെ വർഷത്തെ 25000 കുറച്ചു 75000 മാത്രമേ എടുക്കു 75000 റിട്ടൺ ഡൌൺ വാല്യൂ എന്ന് അറിയപ്പെടുന്നു 75000ൻറെ 25 ശതമാനം ആണ് രണ്ടാം വർഷ ഡിപ്രീസിയേഷൻ അപ്പോൾ മൂന്നാം വർഷം 75ൽ നിന്ന് 22500 കുറച്ചു അതിൽ 25 ശതമാനം കണ്ടെത്തുന്നു ഇങ്ങനെ വർഷം തോറും ഡിപ്രീസിയേഷൻ കുറക്കുന്ന രീതി ആണ് റെഡ്യൂസിങ്ങ് ബാലൻസ് രീതി കഴിഞ്ഞ തവണ രണ്ട് രീതികളുടെ താരതമ്യവുമായി നമ്മൾ ചർച്ച നിർത്തി സ്ട്രെയ്റ്റ് ലൈൻ റെഡ്യൂസിങ്ങ് ബാലൻസ് ഇപ്പോൾ രണ്ട് രീതികൾക്കിടയിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് നല്ലത് സ്ട്രെയ്റ്റ് ലൈൻ ലളിതമാണ് അതിനാൽ ഇത് നല്ലതാണ് അതിനു ചില ഗുണങ്ങളുണ്ട് പക്ഷേ റെഡ്യൂസിങ്ങ് ബാലൻസിനു ധാരാളം ഗുണങ്ങളുണ്ട് എന്തെന്നാൽ ഡിപ്രീസിയേഷൻ്റെ മൂല്യം യൂസ്ഫുൾ ലൈഫ് കാലയളവിൽ ആണ് കണക്കാക്കുന്നത് അതിനാൽ ആദ്യ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടുതൽ ആണ് വരും കാലങ്ങളിൽ കുറവും ഇപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണ് കാരണം ഓരോ വർഷവും അറ്റകുറ്റപ്പണികളുടെ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം യന്ത്രം പഴയതാകുന്നു അതിനാൽ പ്രാരംഭ വർഷങ്ങളിൽ കൂടുതൽ ഡിപ്രീസിയേഷനും പിന്നീടുള്ള വർഷങ്ങളിൽ കുറഞ്ഞ ഡിപ്രീസിയേഷനും ഈടാക്കുന്നത് നല്ലതാണ് കാരണം പ്രാരംഭ വർഷങ്ങളിലെ അറ്റകുറ്റപ്പണി കുറവായിരിക്കും പക്ഷേ ഡിപ്രീസിയേഷൻ ഉയർന്നതാണ് പിന്നീടുള്ള വർഷം നമുക്ക് ഡിപ്രീസിയേഷൻ ഒഴിവാക്കാം അതിനാൽ അറ്റകുറ്റപ്പണികൾ കൂടുതൽ നന്നാക്കാൻ കഴിയും ബാലൻസ് കുറയ്ക്കുക എന്നതാണ് മറ്റൊരു നേട്ടം കാരണം ആദ്യ വർഷത്തിൽ ബാലൻസ് ഷീറ്റിൽ മികച്ച രീതിയിൽ പ്രതിഫലിക്കുന്ന മൂല്യത്തിൽ കാര്യമായ നഷ്ടമുണ്ട് മുൻ വർഷങ്ങളിൽ കൂടുതൽ ഡിപ്രീസിയേഷൻ ഈടാക്കിയാൽ അത് ബാലൻസ് കുറയ്ക്കുന്നു അതുകൊണ്ടാണ് ഒരു ആദായനികുതി നിയമം റെഡ്യൂസിങ്ങ് ബാലൻസ് രീതി മാത്രമേ അനുവദിക്കുന്നുള്ളു എന്നാൽ കമ്പനി ആക്ട് രണ്ടു രീതിയും അനുവദിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ദയവായി അവരുടെ ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾ വായിക്കുക ഡിപ്രീസിയേഷൻ ഷെഡ്യൂളിൽ രീതിയും ഡിപ്രീസിയേഷൻ നിരക്കും പരാമർശിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് വീണ്ടും ഫോർമുല ആണ് കഴിഞ്ഞ തവണ നമ്മൾ ഈ കണക്കുകൂട്ടലുകൾ നടത്തിയതാണ് ഇപ്പോൾ മെഷീൻ അവർ രീതി എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ രീതിയിലേക്ക് പോകാം ചില മെഷീനുകളുടെ കാര്യത്തിൽ എത്ര മണിക്കൂർ മെഷീൻ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് അതിന്റെ പ്രവൃത്തി സമയത്തെ അടിസ്ഥാനമാക്കിയാണ് അതിനാൽ ഇതൊരു ഉദാഹരണമാണ് മെഷീന്റെ വില 5 ലക്ഷവും പ്രവൃത്തി സമയം 40000 ഉം ആണെങ്കിൽ സ്ക്രാപ്പ് മൂല്യം 10000 ആണ് ഇപ്പോൾ ഫലപ്രദമായ പ്രവർത്തന സമയത്തിന്റെ രീതി നൽകിയിട്ടുണ്ട് 1 2 വർഷം അത് 5000 ആണ് 3 5 ഇത് 7000 ഉം 6 7 3000ഉം ആണ് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് നമുക്ക് ഇവിടെ കോസ്റ്റ് അറിയാം കണക്കാക്കിയ പ്രവൃത്തി സമയം 40000 ആണെന്നും അറിയാം സ്ക്രാപ്പ് മൂല്യം 10000 അതിനാൽ സ്ട്രെയ്റ്റ് ലൈൻ ഡിപ്രീസിയേഷൻ ഈടാക്കുന്നതിനുപകരം അല്ലെങ്കിൽ ഒരു നിശ്ചിത നിരക്കിൽ ഡിപ്രീസിയേഷൻ ഈടാക്കുന്നതിനുപകരം ഇത് ഓരോ മണിക്കൂറിലും കണക്കാക്കും തുടർന്ന് ആ വർഷത്തിലെ മണിക്കൂറുകളെ അടിസ്ഥാനമാക്കി ഡിപ്രീസിയേഷൻ കണക്കാക്കും ഉദാഹരണത്തിന് ഒന്നാമതായി ആകെ പ്രവർത്തന സമയം 40000 ആണെന്ന് നമ്മുക്ക് അറിയാം ഇപ്പോൾ മെഷീന്റെ വില 5 ലക്ഷം മൈനസ് 10000 അതിനർത്ഥം അടിസ്ഥാനപരമായി അതിന്റെ ഉപയോഗപ്രദമായ ലൈഫിനെക്കാൾ 490000 കുറയ്ക്കണം 1 2 വർഷങ്ങളിൽ ഇത് ഒരു പുതിയ യന്ത്രമാണ് അതിനാൽ ഉപയോഗപ്രദമായ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഉപയോഗപ്രദമായ സമയം 5000 മാത്രമാണ് 5000 ബൈ 40000 x 490000 അതിനാൽ 1 2 വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ 61250 ആണ് ഇപ്പോൾ 3 5 ഇപ്പോൾ ഡിപ്രീസിയേഷൻ ചെയ്യേണ്ട തുക 5 ലക്ഷം മൈനസ് 10000 ആണ് അതായത് 490000 3 5 വരെ കണക്കാക്കിയ മണിക്കൂറുകളുടെ എണ്ണം 7000 ആണ് അതിനാൽ 7000 40000 കൊണ്ട് ഹരിക്കുന്നു നമുക്ക് 85750 ലഭിക്കുന്നു 6 8 വർഷം ഇപ്പോൾ യന്ത്രം പഴയതായിത്തീരുന്നു അതിനാൽ പ്രതിവർഷം ഉപയോഗപ്രദമായ സമയം 3000 മാത്രമാണ് അതിനാൽ 3000 ബൈ 40000 x 500000 മൈനസ് 10000 സ്ഥിരമായിരിക്കും അതിനാൽ 6 8 വാർഷിക ഡിപ്രീസിയേഷൻ 36750 മാത്രമാണ് അതിനാൽ ഒരു കാലയളവിനുള്ളിൽ ഇത് കുറയ്ക്കുന്നതിനുപകരം അതിന്റെ ഉപയോഗത്തിലൂടെയാണ് പോകുന്നത് അതിനാൽ ഒരു വർഷത്തിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നു അതനുസരിച്ച് ഡിപ്രീസിയേഷൻ ഈടാക്കുന്നു ഇതിനെ മെഷീൻ അവർ രീതി എന്നും നാലാമത്തേത് ചർച്ചചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ് രീതിയാണെന്നും അറിയപ്പെടുന്നു ഇപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് രീതിയിൽ ചെയ്യുന്നത് വാർഷിക ഉൽപാദനത്തെ നോക്കുകയാണ് മാത്രമല്ല ആ വർഷത്തെ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കി ഡിപ്രീസിയേഷൻ ഈടാക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇവിടെ ഡിപ്രീഷ്യബിൾ തുകയെ മൊത്തം ഉല്പാദനവുമായി ഹരിക്കും മൊത്തം ഉൽപാദനത്തിൽ ആ നിർദ്ദിഷ്ട കാലയളവിലെ ഉൽപാദന യൂണിറ്റുകൾ എത്രയാണെങ്കിലും ആ കാലയളവിൽ ആ ഭാഗം കുറയുന്നു നമുക്ക് ഈ ഉദാഹരണം പരിശോധിക്കാം ചെലവ് 30000 കണക്കാക്കിയ മൊത്തം ഉത്പാദനം 4000 ഇത് യൂണിറ്റിന്റെ കാര്യത്തിലാണ് സ്ക്രാപ്പ് മൂല്യം 2000 ആണ് അതിനാൽ അടിസ്ഥാനപരമായി 30 മൈനസ് 2 അതിനർത്ഥം 28000 എന്നത് ഡിപ്രീഷ്യബിൾ തുകയാണ് ഇത് പ്രധാനമായും 4000 ഉൽപാദനത്തിനാണ് ഇപ്പോൾ ഈ 4000 മൂന്ന് വർഷത്തിനിടയിൽ വ്യാപിച്ചിരിക്കുന്നു വർഷം 1 2000 വർഷം 2 1500 വർഷം 3 500 എന്നിവയാണ് കണക്കാക്കുന്നത് അതിനാൽ ഡിപ്രീസിയേഷൻ 4000 യൂണിറ്റുകൾക്കാണ് യൂണിറ്റുകളുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് അത് വ്യാപിപ്പിക്കും അതിനാൽ വർഷം 1 30 മൈനസ് 2 അതായത് 28000 അടിസ്ഥാനപരമായി ഡിപ്രീസിയേഷൻ നടത്തേണ്ടതാണ് ഇവിടെ 2000 നെ 4000 കൊണ്ട് ഹരിക്കുന്നു അതായത് വർഷം 1 ന് മൂല്യത്തകർച്ച 14000 ആയി കണക്കാക്കപ്പെടുന്നു 2 ാം വർഷത്തിൽ ഫോർമുല അത് തന്നെയാണ് അത് 4000 ന് 1500 ആണ് അതായത് 10000 അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് ഇത് 10500 ആയി കണക്കാക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 3 വർഷം ചെയ്യാൻ കഴിയുമോ അതിനാൽ 30 മൈനസ് 2 അതിനർത്ഥം അടിസ്ഥാനപരമായി 4000 ന് 28000 3 വർഷം കണക്കാക്കിയ യൂണിറ്റുകൾ വെറും 500 ആണ് അതിനാൽ നിങ്ങൾക്ക് ഇത് വാമൊഴിയായി ചെയ്യാനും കഴിയും 500 x 28000 ബൈ 4000 നിങ്ങൾക്ക് ഇത് മനസിലാകുന്നുണ്ടോ നിങ്ങൾക്ക് പ്രതിവർഷം 3500 ലഭിക്കുന്നു ഇനിയും ചില മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ അവയ്ക്ക് പ്രായോഗിക ഉപയോഗമില്ല സ്ട്രെയ്റ്റ് ലൈൻ ഡിപ്രീസിയേഷൻ റെഡ്യൂസിങ്ങ് ബാലൻസ് എന്നീ ആദ്യത്തെ രണ്ട് രീതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതികൾ മിക്കവാറും എല്ലാ കമ്പനികളും ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് ബാലൻസ് കുറയ്ക്കുന്ന രണ്ടാമത്തെ രീതി ഏറ്റവും പ്രധാനമാണ് ആദായനികുതി നിയമം അനുസരിച്ച് മിക്ക കമ്പനികളും ബാലൻസ് കുറയ്ക്കുന്നത് നിർബന്ധമാണ് മൂന്നാമത്തെയും നാലാമത്തെയും രീതി സാമ്പത്തിക അക്കൌണ്ടിങ്ങിൽ സാധാരണ ഉപയോഗിക്കുന്നില്ല പക്ഷേ അവ മാനേജർ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൌണ്ടിംഗിന് ഉപയോഗപ്രദമാകും അതുകൊണ്ടാണ് ഈ സെഷനിൽ ഞാൻ ഇത് കവർ ചെയ്തത് അതിനാൽ ഡിപ്രീസിയേഷനെ ക്കുറിച്ചുള്ള ചർച്ച അവസാനിച്ചു നിങ്ങളുടെ സ്വന്തം കമ്പനി അനുസരിച്ച് ഡിപ്രീസിയേഷൻ ഷെഡ്യൂൾ നോക്കാൻ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമിപ്പിക്കുന്നു അത് നിങ്ങൾക്ക് കുറച്ച് ഇൻപുട്ടുകൾ നൽകും അതിനാൽ ഡിപ്രീസിയേഷനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചചെയ്യുമ്പോൾ വാർഷിക റിപ്പോർട്ടിൽ ഇത് എങ്ങനെ ദൃശ്യമാകുമെന്ന് നമുക്ക് നോക്കാം ടാറ്റ മോട്ടോഴ്സിന്റെ വാർഷിക റിപ്പോർട്ടിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നു ഇത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇപ്പോൾ ഞങ്ങൾ ബാലൻസ് ഷീറ്റിന്റെ വിഭാഗത്തിലാണ് ബാലൻസ് ഷീറ്റിനുള്ളിൽ നിങ്ങൾക്ക് അസറ്റുകൾ പരിശോധിക്കാം ടാറ്റ മോട്ടോഴ്സിന്റെ വാർഷിക റിപ്പോർട്ടിൽ ഇത് ഇങ്ങനെയാണ് അതിനാൽ പ്രോപ്പർട്ടി പ്ലാന്റും ഉപകരണങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിപ്രീസിയേഷനെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണിത് നോൺകറന്റ് അസറ്റിനുള്ളിൽ അസറ്റിന്റെ ഒരു ലിസ്റ്റ് നൽകുകയും തുടർന്ന് ഓരോ അസറ്റിന്റെയും വിവരണം നൽകുകയും ചെയ്യുന്നു അതിനാൽ പ്രോപ്പർട്ടി പ്ലാന്റും ഉപകരണങ്ങളും വിവരിച്ചിരിക്കുന്നു ഇപ്പോൾ അവസാനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അസറ്റിന്റെ തരവും കണക്കാക്കിയ ഉപയോഗപ്രദമായ ലൈഫും കാണിക്കുന്ന ഒരു പട്ടികയുണ്ട് ഇത് വളരെ രസകരമാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിന് ഒരു പ്രത്യേക ആസ്തിയുടെ ഉപയോഗപ്രദമായ ലൈഫ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇത് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാനമാകുമെന്നും കണ്ടു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് തരങ്ങൾ കെട്ടിടം തുടർന്ന് റോഡുകൾ പാലങ്ങൾ കലുങ്കുകൾ എന്നിവ കാണാൻ കഴിയും അതിൻ്റെ ലൈഫ് ന്യായമായും തെറ്റാണ് ഇത് 4 6 വർഷം വരെയാണ് പിന്നെ യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കുക ഇത് 3 30 വർഷം വരെയാണ് കമ്പ്യൂട്ടറുകളും അതുമായി ബന്ധപ്പെട്ട ആസ്തി 3 6 വർഷം വരെയും വാഹനങ്ങൾ 3 11 വർഷം വരെയും ഫർണിച്ചർ ഫർണിച്ചറുകൾ 3 മുതൽ 21 വർഷം വരെയുമാണ് എന്നാൽ ഒരു പ്രത്യേക ക്ലാസ് ആസ്തികൾക്കായി അവർ കണക്കാക്കിയ ഉപയോഗപ്രദമായ ലൈഫ് നിർവചിച്ചിരിക്കുന്നു ഇപ്പോൾ ആ പരിധിക്കുള്ളിലെ ഒരു പ്രത്യേക അസറ്റിനായി അവർ ഉപയോഗപ്രദമായ ലൈഫ് തീരുമാനിക്കും അടുത്തതായി അവർ ഡിപ്രീസിയേഷൻ പോലുള്ള ചില പദങ്ങളുടെ നിർവചനങ്ങൾ നൽകി തുടർന്ന് ബോക്സിലെ പദങ്ങളും അക്കയുമിലേറ്റസ്ഡ് ഡിപ്രീസിയേഷൻ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഡിപ്രീസിയേഷൻ എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഒരു പ്രത്യേക വർഷത്തിലെ ആസ്തിയുടെ മൂല്യത്തിലെ നഷ്ടമോ കുറവോ ആണ് ഇപ്പോൾ ആ അസറ്റിനായി ഒന്നാം വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ 10000 എന്ന് പറയുന്നു വർഷം 2 8000 വർഷം 3 4000 പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ശേഖരിക്കുക എന്നതാണ് അതിനാൽ വർഷം 1 ൽ ഇത് 10 ആയിരിക്കും വർഷം 2 ഇത് 10 പ്ലസ് 8 18 ആയിരിക്കും മൂന്നാം വർഷം ഇത് പത്ത് 8 4 22 ആയിരിക്കും അതുപോലെ തന്നെ മൊത്തം ഡിപ്രീസിയേഷനോ അക്കയുമിലേറ്റസ്ഡ് ഡിപ്രീസിയേഷനോ കണക്കാക്കുകയും അത് ബാലൻസ് ഷീറ്റിൽ വെളിപ്പെടുത്തുകയും ചെയ്യും അതിനുശേഷം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്ന് വിളിക്കുന്ന ഒരു ഇനമുണ്ട് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് എന്നത് ആ നിർദ്ദിഷ്ട വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷനെ സൂചിപ്പിക്കുന്നു ഇവിടെ നൽകിയിരിക്കുന്ന അവസാന ഇനം സാൽവേജ് മൂല്യമാണ് സാൽവേജ് മൂല്യം അല്ലെങ്കിൽ സ്ക്രാപ്പ് മൂല്യം ഇത് നീക്കം ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഇത് വളരെ പ്രധാനമാണ് കുറിപ്പ് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് വാർഷിക റിപ്പോർട്ടിലുള്ളത് പോലെ തന്നെ ആണ് അതിനാൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആസ്തികളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് തുടർന്ന് ഭൂമി കെട്ടിടം തുടർന്ന് പ്ലാന്റ് ഉപകരണങ്ങൾ ഫർണിച്ചർ ഫർണിച്ചറുകൾ തുടങ്ങി ആസ്തികളുടെ വിവരം നൽകുന്നു ഏപ്രിൽ 1 അനുസരിച്ചുള്ള ഓപ്പണിങ് ബാലൻസ് നൽകിയിരിക്കുന്നു തുടർന്ന് കൂട്ടിച്ചേർക്കലുകൾ കറൻസി വിവർത്തന വ്യത്യാസങ്ങൾ തുടർന്ന് ഡിസ്പോസൽ എന്നിവ നൽകുന്നു ഇപ്പോൾ ഇവയുടെ ആകെത്തുക 2017 മാർച്ച് മുപ്പത് ഒന്നാം തീയതി വരെയുള്ള ചെലവായിരിക്കും അതാണ് ക്ലോസിങ് കോസ്റ്റ് അതിനാൽ നമ്മൾ എല്ലാ ചിലവും പരിഗണിച്ചു തുടർന്ന് അക്കയുമിലേറ്റസ്ഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് മൈനസ് അക്കയുമിലേറ്റസ്ഡ് ഡിപ്രീസിയേഷൻ ഒരു മൊത്തം തുകയാണ് WDV റിട്ടൺ ഡൌൺ വാല്യൂ ചർച്ച ചെയ്യുകയായിരുന്നു നെറ്റ് ക്യാരീങ് തുക ചർച്ച ചെയ്തതിന് സമാനമാണ് ഇത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഇത് ഇൻറ്റാൻജിബിൾ അസ്സറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഗുഡ്വിൽ കുറിച്ചാണ് ഇൻറ്റാൻജിബിൾ ആയ ഒരു പ്രധാന ആസ്തി ഗുഡ്വിൽ ആണ് കമ്പനി മറ്റ് ആസ്തികൾ സ്വന്തമാക്കുമ്പോൾ ആ അസറ്റിന്റെ ന്യായമായ മൂല്യത്തേക്കാൾ കൂടുതൽ തുക അത് നൽകിയേക്കാം അതിനാൽ നിങ്ങൾ 15 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിക്കുന്നുവെന്ന് കരുതുക പക്ഷേ നിങ്ങൾ 18 കോടി അടയ്ക്കുന്നുവെന്ന് പറയട്ടെ അതിനാൽ നിങ്ങൾ 3 കോടി കൂടുതൽ അടയ്ക്കുന്നു 18 മൈനസ് 15 നിങ്ങൾക്ക് നൽകിയ 3 കോടി ഗുഡ്വിൽ ആയി കണക്കാക്കും സെല്ഫ് ജനറേറ്റഡ് ഗുഡ്വിൽ എന്നറിയപ്പെടുന്ന ഗുഡ്വില്ലിന്റെ മറ്റൊരു വിഭാഗം ഉണ്ട് പക്ഷേ അത് ബാലൻസ് ഷീറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല ബാലൻസ് ഷീറ്റിൽ വെളിപ്പെടുത്തുന്നതിനെ പർച്ചേസ് ഗുഡ്വിൽ എന്ന് വിളിക്കുന്നു അത് ബാലൻസ് ഷീറ്റിലെ ഇൻറ്റാൻജിബിൾ ആസ്തിയായി തരംതിരിക്കുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ ഒരു പർച്ചേസ് ഗുഡ്വിൽ നോക്കുകയാണ് അതിനാൽ ആദ്യം ഗുഡ്വിൽ നിർവചനം നൽകുകയും തുടർന്ന് ബാലൻസ് ഷീറ്റിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുപോലെ ഗുഡ്വിൽന്റെ മൂല്യം കാണുകയും ചെയ്യാം നോക്കൂ അസ്സെറ്റ്സിനു കീഴിൽ നോൺ കറൻറ് അസ്സെറ്റ്സ് സീ ഇനം ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട് ഒരു റ്റാൻജിബിൾ അസറ്റിന് സമാനമാണ് ഇത് പക്ഷേ അൽപ്പം വ്യത്യസ്തമാണ് തുടക്കത്തിൽ ആദ്യം ബാലൻസ് തുടർന്ന് അതിനെ ഇമ്പയർമെൻറ് എന്ന് വിളിക്കുന്നു അതിനർത്ഥം അസറ്റിന് അതിന്റെ മൂല്യം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ ഇമ്പയർമെൻറ് എന്ന് വിളിക്കുന്നു അതിനാൽ കുറച്ച് തുക ഇമ്പയർമെൻറ് നൽകുന്നു കറൻസി വിവർത്തന വ്യത്യാസങ്ങളുണ്ട് കാരണം ആ ഗുഡ്വിൽ വിദേശ കറൻസിയിലാണെങ്കിലും ബാക്കി തുക അവസാനം എന്താണ് ഇമ്പയർമെൻറ് എന്ന് നോക്കാം പണമുണ്ടാക്കുന്ന യൂണിറ്റുകൾ പ്രതിവർഷം ഇമ്പയർമെൻറ് പരിശോധിക്കുന്നു അതിനാൽ ഇതിന്റെ അർത്ഥമെന്തെന്നാൽ ആ പ്രത്യേക യൂണിറ്റിനോ ബിസിനസിന്റെ ആ പ്രത്യേക ഭാഗത്തിനോ പണം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കരുതി ഒരു നിശ്ചിത തുക ഗുഡ്വിൽ നൽകി ആ ബിസിനസിന് ഇനി ആ ശേഷിയില്ലെങ്കിൽ അതായത് ഡിപ്രീസിയേഷൻ മേലിൽ ബാധകമല്ല അത്തരം സാഹചര്യങ്ങളിൽ ഡിപ്രീസിയേഷൻ എഴുതിത്തള്ളുകയോ അല്ലെങ്കിൽ അതിന്റെ മൂല്യം ബാലൻസ് ഷീറ്റിൽ നിന്ന് നീക്കംചെയ്യുകയോ ചെയ്യുന്നു അത് പ്രക്രിയയെ ഒരു ഇമ്പയർമെൻറ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ മറ്റ് ഇൻറ്റാൻജിബിൾ അസറ്റുകളിലേക്ക് പോകാം അതിനാൽ ഗുഡ്വില്ലിനു ശേഷമുള്ള അസറ്റുകളിൽ മറ്റ് ഇൻറ്റാൻജിബിൾ അസറ്റുകൾ ഇനം കാണുന്നു നമ്മൾ ഇതിനകം ഇൻറ്റാൻജിബിൾ ആസ്തിയെക്കുറിച്ച് ചർച്ചചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്പർശിക്കാനോ അനുഭവിക്കാനോ കഴിയാത്ത അസറ്റുകളാണ് ഇൻറ്റാൻജിബിൾ ആസ്തികൾ ഇപ്പോൾ ഈ ആസ്തികളും അമോർടൈസ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ അവ ഡിപ്രീസിയേഷൻ ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഇവിടെ അവ ഇൻറ്റാൻജിബിൾ ആയതിനാൽ അവ അമോർടൈസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അസറ്റിന്റെ തരവും കണക്കാക്കിയ ഉപയോഗപ്രദമായ ലൈഫും കാണാൻ കഴിയും അതിനാൽ പേറ്റന്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് 2 മുതൽ 12 വർഷം വരെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് 1 മുതൽ 8 വർഷം വരെയാണ് പിന്നെ ഡീലർ നെറ്റ്വർക്കിന് ഇത് 20 വർഷവും ഇൻറ്റെലെക്ച്വൽ പ്രോപ്പർട്ടി 3 മുതൽ 10 വർഷവുമാണ് അതിനാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗുഡ്വില്ലിനു പ്രത്യേകമായി കണക്കാക്കിയ ഉപയോഗപ്രദമായ ലൈഫ് ഒന്നും ഇല്ല ഇത് ശാശ്വതമായി നിലനിൽക്കും ഇമ്പയർമെൻറ് പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ പ്രത്യേക ബിസിനസ്സിനോ ഉൽപ്പന്നത്തിനോ അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടെങ്കിൽ ഗുഡ്വിൽ എഴുതിത്തള്ളും അതിനെ ഒരു ഇമ്പയർമെൻറ്ന്ന് വിളിക്കും പക്ഷേ മറ്റ് ഇൻറ്റാൻജിബിൾ ആസ്തികൾക്കായി അമോർടൈസെഷൻ എന്നറിയപ്പെടുന്ന ഡിപ്രീസിയേഷൻ ഈടാക്കും അതിനാൽ നിങ്ങൾക്ക് കണക്കാക്കിയ ലൈഫ് ആവശ്യമാണ് ഇപ്പോൾ വീണ്ടും ഒരു വർക്കിംഗ് ടേബിൾ ഉണ്ട് ഫോണ്ട് ചെറുതാണ് പക്ഷേ നിങ്ങൾക്ക് ഒന്ന് നോക്കാം മറ്റ് ഇൻറ്റാൻജിബിൾ ആസ്തികൾക്കായി റ്റാൻജിബിൾ ആസ്തികളെപ്പോലെ ഇത് ഓപ്പണിംഗ് ബാലൻസ് അഡീഷനുകൾ മുതലായവയിൽ ആരംഭിക്കുന്നു തുടർന്ന് അക്കയുമിലേറ്റസ്ഡ് ഡിപ്രീസിയേഷൻ കണക്കാക്കുകയും നിങ്ങൾക്ക് അന്തിമ മൂല്യം ലഭിക്കുകയും ചെയ്യും ഒരു എക്സിബിറ്റ് കൂടി ഉണ്ട് ഇവ വാർഷിക റിപ്പോർട്ട് പേജ് 155 ൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഫൈനൽ ഡിസ്ക്ലോഷർ നൽകിയിരിക്കുന്നു പ്രോപ്പർട്ടി പ്ലാന്റും ഉപകരണങ്ങളും റ്റാൻജിബിൾ ആസ്തിയാണ് ഒപ്പം ഗുഡ്വില്ലും മറ്റ് ഇൻറ്റാൻജിബിൾ ആസ്തികളും നിങ്ങൾക്ക് ആകെ മൊത്തം നൽകുന്നു ടാറ്റ മോട്ടോറിൻറ്റെ വാർഷിക റിപ്പോർട്ട് ഡൌൺലോഡ് ചെയ്ത് സ്വയം കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം കമ്പനിയുടെ വാർഷിക റിപ്പോർട്ടും നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ചില ടേം ബോക്സുകൾ നൽകിയിരിക്കുന്നു കടം വീട്ടൽ ചെലവ് അക്കയുമിലേറ്റസ്ഡ് അമോർടൈസെഷൻ എന്നിവ ഇത് ഡിപ്രീസിയേഷൻ പോലെയാണ് അമോർടൈസെഷൻ എക്സ്പെൻസ് എന്നത് വർഷത്തിലെ അമോർടൈസെഷൻ സൂചിപ്പിക്കുന്നു ഒപ്പം അക്കയുമിലേറ്റസ്ഡ് ഡിപ്രീസിയേഷൻ പോലെ അക്കയുമിലേറ്റസ്ഡ് അമോർടൈസെഷൻ ഉണ്ട് അതിനാൽ 2016 2017 ലെ ടാറ്റ മോട്ടോറുകളുടെ വാർഷിക റിപ്പോർട്ടിന്റെ യഥാർത്ഥ എക്സ്ട്രാക്റ്റ് ഇതാണ് ദയവായി ഇത് നോക്കൂ മൂല്യത്തകർച്ച എന്ന ആശയം ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്തേ